ആശംസകളും TALE 2 കോഴ്സിന്റെ അവസാന യൂണിറ്റായ മൊഡ്യൂൾ 3 യൂണിറ്റ് 17 ലേക്ക് സ്വാഗതവും ഞങ്ങൾ ഇതിന് നൽകിയ ശീർഷകം "അതിനാൽ അധ്യാപകൻ എന്തു ചെയ്യണം " മുമ്പത്തെ യൂണിറ്റിൽ മെറ്റാകോഗ്നിറ്റീവ് പഠനത്തിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ മനസിലാക്കി മുമ്പത്തെ എല്ലാ യൂണിറ്റുകളും പരിശോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിവിധ പ്രബോധന തരങ്ങളും സമീപനങ്ങളും പഠനത്തിന്റെ ചില സിദ്ധാന്തങ്ങളും നിർദ്ദേശ ഘടകങ്ങൾ മസ്തിഷ്കം എങ്ങനെ പഠിക്കുന്നു ഇവയെല്ലാം നോക്കി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ തലച്ചോറിന്റെ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ടെയിൽ മൊഡ്യൂൾ 2 ൽ എൻബിഎ വ്യക്തമാക്കിയ ഫലങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഒരു കോഴ്സ് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് ഞങ്ങൾ പരിശോധിച്ചു ADDIE എന്ന് വിളിക്കുന്ന ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഞങ്ങൾ നൽകി കൂടാതെ ADDIE യുടെ എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ ഇതെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അധ്യാപകന് എന്തുചെയ്യാൻ കഴിയും ആദ്യത്തെ പ്രതികരണങ്ങളിലൊന്ന് അതെ എല്ലാം കേൾക്കാൻ സന്തോഷമുണ്ട് പക്ഷേ എന്റെ പ്രത്യേക നിർദ്ദേശ സാഹചര്യത്തിൽ എനിക്ക് എന്തുചെയ്യാൻ കഴിയും അതിനാൽ ഒരു അധ്യാപകൻ പ്രവർത്തിക്കുന്ന പശ്ചാത്തലം മനസിലാക്കാൻ ആ പശ്ചാത്തലത്തിനുള്ളിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നു നോക്കുന്നു ഈ യൂണിറ്റിന്റെ പ്രാഥമിക ഫലം അധ്യാപകന് തന്റെ പ്രബോധന സാഹചര്യത്തിൽ എന്തുചെയ്യാനാകുമെന്ന് മനസിലാക്കുക എന്നതാണ് പ്രബോധന സാഹചര്യത്തിൽ എല്ലാം ഉൾപ്പെടും മാനേജുമെന്റ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡിപ്പാർട്ട്മെന്റ് ഏകോപിപ്പിച്ച രീതി നിങ്ങളുടെ പക്കലുള്ള വിഭവങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള ക്ലാസ് മുറികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കുന്നത് എല്ലാം ചില പ്രക്രിയകൾ വളരെ കർശനമായി നിർവചിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അത് ടീച്ചർ പ്രവർത്തിക്കേണ്ട ഒരു ചട്ടക്കൂട് നൽകുന്നു ഇവയെല്ലാം ഒരു പ്രബോധന സാഹചര്യത്തിന്റെ തലക്കെട്ടിൽ ഉൾപ്പെടുത്താം അധ്യാപകർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ പ്രാഥമിക മാറ്റ ഏജന്റുകളാണ് അവർ ഭാവി സൃഷ്ടിക്കുന്നു നിങ്ങൾ ഭാവി സൃഷ്ടിക്കുകയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഭാവി നിങ്ങളുടെ പ്രോഗ്രാമിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളാണ് അവരുടെ അറിവ് നിലകൾക്കോ കഴിവുകൾക്കോ നിങ്ങൾ ഉത്തരവാദികളാണ് അതിനാൽ നിങ്ങൾ മാറ്റ ഏജന്റുമാരാണെന്ന് നിങ്ങൾ അഭിമാനിക്കണം അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ പ്രധാന സഹായികൾ പഠനത്തെ സുഗമമാക്കുകയെന്നതാണ് അവരുടെ പ്രധാന ജോലി എങ്കിലും പഠനത്തെ സുഗമമാക്കുന്നതിന് അവർ ഒരിക്കലും ഒരു പരിശീലനവും നടത്തുന്നില്ല നിർഭാഗ്യവശാൽ ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ഒരാൾ ഉന്നതവിദ്യാഭ്യാസത്തിൽ അദ്ധ്യാപകനാകുമ്പോൾ അധ്യാപനത്തിലും പഠനത്തിലും അദ്ദേഹത്തിന് ഒരു പരിശീലനവും നൽകുന്നില്ല നിങ്ങൾ ഒരു ബിരുദാനന്തര ബിരുദം നേടിയപ്പോൾ നിങ്ങൾ ഒരു വിഷയത്തിൽ സ്വയം യോഗ്യത നേടി എന്നിരുന്നാലും ഒരു വിഷയം അറിയുന്നത് പഠനത്തെ സുഗമമാക്കുന്ന യഥാർത്ഥ പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമാണ് പഠനത്തെ സുഗമമാക്കുന്നതിന് നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചില്ലെന്ന് നിങ്ങൾ സ്വയം അംഗീകരിക്കണം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് അധ്യാപകർക്ക് പിന്തുണ നൽകാനുള്ള ശ്രമമാണ് TALE TALE 1 മൊഡ്യൂൾ 1 3 എല്ലാ എഞ്ചിനീയറിംഗ് അധ്യാപകർക്കും പഠനം സുഗമമാക്കുന്നതിന് പരിശീലനം നൽകാത്തതിന്റെ വിടവ് നികത്താൻ പിന്തുണ നൽകുന്നു ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കാരണം ഞങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയ്ക്ക് ത്രിതല സംവിധാനമുണ്ട് സർവ്വകലാശാലകൾ കൽപിത സർവ്വകലാശാലകൾ സ്വയംഭരണ കോളേജുകൾ സ്വയംഭരണേതര കോളേജുകൾ എന്നിവയായി കണക്കാക്കപ്പെടുന്നു സ്വകാര്യ സർവ്വകലാശാലകൾ ഉൾപ്പെടെയുള്ള സർവ്വകലാശാലകൾക്ക് അവരുടെ സ്വന്തം പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനും അവർക്ക് സ്വന്തമായി പരീക്ഷകൾ നടത്താനും കഴിയും സ്വയംഭരണ കോളേജ് ഇപ്പോഴും ഒരു സർവ്വകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പാഠ്യപദ്ധതി രൂപകൽപ്പന കോഴ്സ് പരീക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വയംഭരണാവകാശമുണ്ട് എന്നാൽ അവ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർവകലാശാല നിശ്ചയിച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു അതേസമയം സ്വയംഭരണേതര കോളേജുകൾ സർവ്വകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാം ഒരു കേന്ദ്ര സ്ഥലത്താണ് തീരുമാനിക്കുന്നത് പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് പരീക്ഷ കേന്ദ്രീകൃതമായി സർവകലാശാല നടത്തുന്നു എല്ലാ പ്രക്രിയകളുടെ വിലയിരുത്തലും ഫലപ്രഖ്യാപനവും ഒരു കേന്ദ്ര സ്ഥലത്താണ് നടത്തുന്നത് കേന്ദ്ര ധനസഹായമുള്ള സ്ഥാപനങ്ങൾ ഐഐടിയുടെ എൻഐടിയും ചില കേന്ദ്ര സർവകലാശാലകളും ഐഐഐടി പോലുള്ള സെമി പബ്ലിക് സ്ഥാപനങ്ങളും ഫാക്കൽറ്റികളെ റിക്രൂട്ട് ചെയ്യുന്നു വിപുലമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നു വളരെ വിപുലമായ ഒരു പ്രക്രിയയിലൂടെ നിങ്ങളുടെ ഫാക്കൽറ്റികളെയും വിദ്യാർത്ഥികളെയും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നല്ല നിലവാരമുള്ള ഫാക്കൽറ്റിയേയും മികച്ച നിലവാരമുള്ള വിദ്യാർത്ഥികൾളേയും ഉറപ്പാക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ നടക്കുന്ന അധ്യാപനവും പഠനവും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതേസമയം സ്വയം മെച്ചപ്പെടുത്തുന്ന സ്വകാര്യ സർവ്വകലാശാലകളും വ്യത്യസ്ത നിലവാരത്തിലാണ് ചിലത് നല്ലതാണ് പക്ഷേ ചിലത് പ്രായോഗികമായി സ്വയംഭരണ കോളേജുകൾ പോലെയാണ് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 90 ശതമാനത്തിലധികവും സ്വയം ധനകാര്യ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സ്വാശ്രയ ഇതര സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരിലേക്കായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ ഈ സ്വയംഭരണേതര സ്ഥാപനങ്ങളുടെ സ്വഭാവം എന്താണ് സ്വയംഭരണേതര സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന കഴിവുകൾ വൈജ്ഞാനിക കഴിവുകൾ പ്രചോദനങ്ങൾ എന്നിവയുണ്ട് സിഇടി റാങ്കിംഗ് ഒരു സൂചകമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30000 ശ്രേണിയിൽ സിഇടി റാങ്കുകൾ ഉണ്ടാകും മിനിമം ആവശ്യകത ഇപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റി തലത്തിൽ 35 ശതമാനം അല്ലെങ്കിൽ 40 ശതമാനം മാർക്ക് ആയി കുറഞ്ഞു അവരുടെ പ്രചോദനങ്ങളും കഴിവുകളും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പാഠ്യപദ്ധതിയും നിർദ്ദേശവും ഐഐടികളുടെയും എൻഐടികളുടെയും പാഠ്യപദ്ധതിയേയും നിർദ്ദേശത്തിനേയും അനുകരണത്തിന് കഴിയില്ല നിർഭാഗ്യവശാൽ ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുമ്പോഴെല്ലാം ആളുകൾ ചെയ്യുന്ന തെറ്റാണ് ഇത് ഈ സർവ്വകലാശാലകളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഐഐടി പാഠ്യപദ്ധതി നോക്കുകയും അനുകരിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ വാസ്തവത്തിൽ ഐഐടി പാഠ്യപദ്ധതിയിൽ കൂടുതൽ ഉള്ളടക്കം ചേർക്കുകയും ചെയ്യുന്നു അത് അവർ ചെയ്യേണ്ടതിന്റെ നേർ വിപരീതമാണ് സ്വയംഭരണേതര സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രചോദനവും അറിവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിന്റെ അർത്ഥമെന്തെന്നാൽ ഈ സ്വയംഭരണേതര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ ട്രസ്റ്റുകൾ സൃഷ്ടിക്കുന്ന വൈവിധ്യമാർന്ന ആളുകൾ സജ്ജമാക്കിയതാണ് നിങ്ങൾ അവരുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അത് വ്യത്യാസപ്പെടുന്നു അവർ വ്യവസായികൾ രാഷ്ട്രീയക്കാർ ബിസിനസ്സ് ആളുകൾ ബിസിനസ്സ് ആളുകൾ അവർ കുത്തക മുതലാളിമാരാകാം എന്ന അർത്ഥത്തിൽഅവർക്ക് എന്ത് പേരും നൽകാം ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന എല്ലാത്തരം ആളുകളുമുണ്ട് ഒന്നാമതായി എന്തുകൊണ്ടാണ് അവർ ഒരു സ്ഥാപനം സൃഷ്ടിക്കുന്നത് ഒരു കടലാസിൽ അവർ എഴുതുന്നതെല്ലാം ശരിയായിരിക്കാമെങ്കിലും അവരുടെ വ്യക്തിപരമായ പ്രചോദനവും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അറിവും എന്താണ് എന്താണ് ഉന്നത വിദ്യാഭ്യാസം വിവിധ മാനേജ്മെൻറുകൾക്കിടയിൽ അത് ഗണ്യമായി വ്യത്യാസപ്പെടും സ്ഥാപനം സൃഷ്ടിക്കപ്പെടുകയും സാമ്പത്തിക ഭദ്രതയും പഠന നിലവാരവും നിലനിർത്തുകയും ചെയ്യുന്നത് പല സ്ഥാപനങ്ങളുടെയും പ്രധാന വെല്ലുവിളികളാണ് രണ്ട് ആവശ്യകതകളുണ്ട് അത് സാമ്പത്തികമായി ലാഭകരമായിരിക്കണം കൂടാതെ പഠന നിലവാരം ഉറപ്പാക്കുകയും വേണം ഇവ രണ്ടും സംഭവിക്കുന്നത് പല സ്വാശ്രയ കോളേജുകൾക്കും ഒരു വെല്ലുവിളിയാണ് 1990 കളുടെ അവസാനത്തിലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്ക് വളരെയധികം ആവശ്യമുണ്ടായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ ആവശ്യം കുറയുന്നു കാരണം ഈ ദിവസങ്ങളിൽ മറ്റ് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ട് അത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മാനേജുമെന്റ് ആരോഗ്യ പരിരക്ഷ നിങ്ങൾ ഇതിന് പേര് നൽകുക ആകാം വലിയ തരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ആ പരിധിവരെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ ആവശ്യം കുറയുന്നു ഈ സ്ഥാപനങ്ങളിൽ പലതും അഭിമുഖീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണിത് കഴിഞ്ഞ 2 3 വർഷത്തിനുള്ളിൽ ധാരാളം കോളേജുകൾ ഇതിനകം അടച്ചുപൂട്ടിയതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം സ്വകാര്യ സർവ്വകലാശാലകളുടെയും സ്വയംഭരണാധികാരമില്ലാത്ത കോളേജുകളുടെയും മാനേജ്മെൻറുകൾക്ക് പ്രാഥമിക പരിഗണനയുണ്ട് സാമ്പത്തിക ഭദ്രത പ്രവേശനം ഉയർന്നതായിരിക്കണം കുറഞ്ഞത് ഇത് 75 കടക്കുന്നില്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും എഐസിടിഇ സംസ്ഥാന സർക്കാരുകൾ ഇത് ഒരു ആവശ്യകതയാണ് എൻബിഎയും ചിലപ്പോൾ എൻഎഎസിയും അംഗീകാരം നൽകണം വിജയശതമാനം ഉയർന്നതും പ്ലെയ്സ്മെന്റുകൾ മികച്ചതുമാണെങ്കിൽ പ്രവേശനം ഉയർന്നതായിരിക്കുമെന്നും ഈ മാനേജുമെന്റുകൾ അനുമാനിക്കുന്നു മാനേജ്മെന്റിന്റെ പൊതുവായ വികാരമാണിത് അതിനാൽ ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഫാക്കൽറ്റി പ്രകടനം നടത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതായത് വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം കണക്കിലെടുക്കാതെ വിജയശതമാനം ഉയർന്നതായിരിക്കണം ഇത് യഥാർത്ഥത്തിൽ ഈ ആവശ്യകത നിറവേറ്റുന്നതിന് മുഴുവൻ സിസ്റ്റവും സ്വയം പരിശ്രമിക്കുന്നു മാനേജ്മെന്റ് അതിന്റെ പ്രതീക്ഷകളെ എച്ച്ഒഡികളിലൂടെ അറിയിക്കുന്നു സാധാരണയായി ഇത് വളരെ കർക്കശമായ ചില പ്രക്രിയകളിലേക്ക് നയിക്കുന്നു അതിനർത്ഥം ആ സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ അധ്യാപകനെ അനുവദിച്ചേക്കില്ല അവന് ഒന്നും പരീക്ഷിക്കാൻ അനുവാദമില്ല വീണ്ടും സ്വയംഭരണേതര കോളേജുകളിലെ അധ്യാപകരിലേക്ക് വരുമ്പോൾ അധ്യാപകർ പലപ്പോഴും അഫിലിയേറ്റഡ് നോൺ ഓട്ടോണമസ് സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് അവർക്ക് തന്നെ വ്യത്യസ്ത കഴിവുകളും ആശയവിനിമയ കഴിവുകളും ഉണ്ട് എല്ലാത്തിനുമുപരി നിങ്ങൾ വന്ന സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിരിക്കാൻ കഴിയില്ല അധ്യാപകർക്ക് അവരുടെ കഴിവുകളിലും ആശയവിനിമയ ശേഷികളിലും ചില പരിമിതികളുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് അവർ അദ്ധ്യാപനത്തെയും പഠനത്തെയും സംബന്ധിച്ച് മോശമായി സജ്ജീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ അവരാരും ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനത്തിന് വിധേയരായിട്ടില്ല അമിതഭാരമുള്ള ഒരു പാഠ്യപദ്ധതി നിർദ്ദേശിക്കാൻ അധ്യാപകർക്ക് ബുദ്ധിമുട്ടാണ് ഒന്നാമതായി പാഠ്യപദ്ധതി പലതവണ അമിതഭാരമുള്ളതാക്കപ്പെടുന്നു അധ്യാപകർ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തുന്നു ഓരോ ക്ലാസ് റൂം കാലയളവിനും അനുവദിച്ച 50 മിനിറ്റ് വൺ വേ ആശയവിനിമയത്തിനായി മുഴുവൻ ഉപയോഗിക്കുക എന്നതാണ് അവർക്ക് സിലബസ് പരിരക്ഷിക്കാനുള്ള ഏക മാർഗം ഇത് നല്ല നിർദ്ദേശത്തിന് വിരുദ്ധമാണ് അദ്ധ്യാപകന്റെ ഗണ്യമായ ഈ സമയം ഏകദേശം 30 അഡ്മിനിസ്ട്രേഷൻ ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ചെലവഴിക്കുന്നു ഈ സ്വയംഭരണേതര കോളേജുകളിൽ അവ വളരെ നിയന്ത്രിതമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഈ പരിമിതികൾക്കൊപ്പം ഒരു അധ്യാപകന് ഇപ്പോഴും പഠന നിലവാരത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പറയുന്നു നീ എങ്ങനെ അതു ചെയ്തു TALE നൽകിയ ചില ഘടകങ്ങൾ ഉപയോഗിക്കുക ആരംഭിക്കുന്നതിന് പോസിറ്റീവ് ആയി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും ഒരു മാറ്റം വരുത്താമെന്നും ചിന്തിക്കുക നിങ്ങൾക്ക് പോസിറ്റീവ് ആയി തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാക്കാമെന്നും ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടെന്നും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല അധ്യാപനത്തിലും പഠനത്തിലും ഒരു മാറ്റം വരുത്താൻ പലരും സ്വന്തമായി മുൻകൈയെടുക്കുന്നത് നാം കണ്ടു മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും ആളുകൾ എങ്ങനെ പഠിക്കുന്നുവെന്നതും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്ന് ടീച്ചർ ഓർമ്മിക്കേണ്ടതാണ് പരിമിതമായ ചില അറിവുകളുണ്ട് മാത്രമല്ല വികാരങ്ങൾ പഠനത്തെ വളരെയധികം സ്വാധീനിക്കുന്നുവെന്നതും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് മാറ്റിനിർത്താൻ കഴിയില്ല വികാരങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അത് എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാം ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ കുറഞ്ഞത് വികാരങ്ങൾ പഠനത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കണം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നിങ്ങൾ അംഗീകരിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുക അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളെ തിരിച്ചറിയുകയും വേണം എല്ലാം നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല നിങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ പരിമിതികൾക്കൊപ്പം നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ തിരിച്ചറിയുക ഒരു വിദ്യാർത്ഥി അവളുടെ അല്ലെങ്കിൽ അവന്റെ സ്വന്തം അറിവ് നിർമ്മിക്കുന്നുവെന്ന് നിങ്ങൾ ഓർക്കണം കൺസ്ട്രക്റ്റിനെ ചില ആളുകൾ കൺസ്ട്രക്റ്റിവിസം അനുസരിച്ച് വിജ്ഞാന ഉൽപാദനം എന്നും വിളിക്കുന്നു അതിനർത്ഥം ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും അവന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അടിസ്ഥാനമാക്കി സ്വന്തം ലോകവീക്ഷണം നിർമ്മിക്കുന്നു എന്നാൽ ഒടുവിൽ എല്ലാവരുടെയും അറിവ് മറ്റെല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാണ് ഓരോരുത്തരും സാമൂഹിക ഇടപെടലുകളിലൂടെ അവരവരുടെ ലോകവീക്ഷണം സൃഷ്ടിക്കുന്നു അവർക്ക് ഇത് നന്നായി ചെയ്യാൻ കഴിയും അതാണ് ഞങ്ങൾ TALE 1 ൽ സാമൂഹിക കൺസ്ട്രക്റ്റിവിസം എന്ന് വിളിച്ചത് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനും അവരുടെ ലോകവീക്ഷണം നിർമ്മിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണിതെന്ന് നിങ്ങൾ വീണ്ടും അംഗീകരിക്കേണ്ടതുണ്ട് ഇത് ഒരു ജാഗ്രതയാണ് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ സാമാന്യവൽക്കരിക്കുന്നതിന് തിരക്കു കൂട്ടരുത് ഇത് പ്രായോഗികമായി എല്ലാ ആളുകളും ചെയ്യുന്നു ഇത് സംഭവിക്കേണ്ട രീതിയാണെന്ന് പറയുക നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കരുത് അദ്ധ്യാപന പഠന പ്രവർത്തനങ്ങൾക്കായി മാത്രമായി ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഇൻറർനെറ്റിന്റെയും സഹപ്രവർത്തകരുമായി നിങ്ങൾ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു നിങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ പങ്കിടുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ ഓരോ കോഴ്സിനും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും പങ്കിടാനും വിലയിരുത്താനും മറ്റും കഴിയും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ അത് മറ്റ് പരിമിതികളെ മറികടക്കാൻ സഹായിക്കുന്നു ഒരാൾ സാമൂഹിക ഇടപെടലുകളിലൂടെ അറിവ് കൂടുതൽ ഫലപ്രദമായി നിർമ്മിക്കുന്നു അതൊരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് അദ്ധ്യാപകരെന്ന നിലയിൽ അദ്ധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും എല്ലാ വശങ്ങൾക്കും ഞങ്ങൾ ഉത്തരവാദികളാണ് അതിനർത്ഥം ചിലപ്പോൾ നിങ്ങൾ ടൈംടേബിളിങ്ങിൽ പങ്കെടുക്കേണ്ടിവരും ചിലപ്പോൾ നിങ്ങൾ കൌൺസിലിംഗിൽ പങ്കെടുക്കേണ്ടിവരും ചിലപ്പോൾ നിങ്ങൾ പരാതി പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ ഡോക്യുമെന്റേഷൻ പ്രശ്നങ്ങൾ എന്നിവ നോക്കേണ്ടതുണ്ട് ഇതെല്ലാം അനാവശ്യമായി അടിച്ചേൽപ്പിക്കുകയും ഞങ്ങളുടെ സമയം പാഴാക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ എല്ലാ വശങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയാണെന്ന് നിങ്ങൾ മാനസികമായി അംഗീകരിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അധികമായ ഒന്നല്ല നിങ്ങളുടെ പതിവ് പ്രവർത്തനത്തിന്റെ ഭാഗമായെങ്കിലും ഈ ജോലികൾ നിങ്ങൾ ചെയ്യും പ്രോഗ്രാം പ്രത്യേകിച്ച് കോർ കോഴ്സുകൾ വകുപ്പിന്റെ എല്ലാ ഫാക്കൽറ്റികളുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകരെ ടീമിലെ അംഗങ്ങളായി പരിഗണിക്കണം അതിനർത്ഥം നിങ്ങൾ കോർ കോഴ്സുകളുടെ പാഠ്യപദ്ധതി സിലബസ് കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ വകുപ്പിന്റെ എല്ലാ ഫാക്കൽറ്റികളുടെയും ഉത്തരവാദിത്തമാണ് ആ കോഴ്സ് പഠിപ്പിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികളുടെ മാത്രമല്ല ഇത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് കാരണം കോഴ്സുകൾ തമ്മിൽ പരസ്പര ബന്ധവും പരസ്പരാശ്രിതത്വവും ഉണ്ട് അവ കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓവർലോഡുചെയ്യാനും മറ്റ് കോഴ്സുകൾ അൺഡർലോഡുചെയ്യാനും കഴിയില്ല അതിനാൽ നിങ്ങൾ ഒരു ടീമെന്ന നിലയിൽ കോർ കോഴ്സുകളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങളും പ്രതിഫലനങ്ങളും രേഖപ്പെടുത്തുകയും ആവശ്യമുള്ളപ്പോൾ പങ്കിടാൻ തയ്യാറാകുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു നല്ല പരിശീലനം നിങ്ങളുടെ സ്വന്തം കുറിപ്പുകൾ നിങ്ങൾക്കുള്ള കുറിപ്പുകൾ എഴുതുന്നത് തുടരുക കൂടാതെ HOD കളുടേയും മാനേജ്മെന്റിന്റേയും ക്രോധം ഉടനടി ആകർഷിക്കുന്ന പുതിയ രീതികൾ പരീക്ഷിക്കുക പക്ഷേ പുതിയ പരീക്ഷണം ആദ്യമായി പ്രവർത്തിക്കില്ലെന്നത് ശ്രദ്ധിക്കുക പൊതുവേ അത് ചെയ്യില്ല കാരണം നിങ്ങൾ ഒരിക്കൽ ശ്രമിച്ചതിനുശേഷം മാത്രമേ നിങ്ങളുടെ പരീക്ഷണ ഫലത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ രണ്ടാമത്തെ തവണ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ പരീക്ഷണവും ക്രമീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുക്കുന്നു അതിനാൽ ഇത് ആദ്യമായി പരാജയപ്പെട്ടാൽ ഉപേക്ഷിക്കരുത് വിലയിരുത്തലിലൂടെ പരമാവധി സ്വാധീനം ചെലുത്താനാകുമെന്നത് ശ്രദ്ധിക്കുക വിലയിരുത്തൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ വിലയിരുത്തൽ പഠനത്തെ നയിക്കുന്നു എന്നിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും മൂല്യനിർണ്ണയ പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ഒരു കോഴ്സിനോ ഒരു പ്രോഗ്രാമിനോ ഉള്ള നിങ്ങളുടെ വിലയിരുത്തൽ പദ്ധതികൾ നിങ്ങൾക്ക് വ്യക്തിഗതമായി മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ ആശയം ബാക്കി ഫാക്കൽറ്റികൾക്ക് വിൽക്കണം എല്ലാവരും സമ്മതിക്കണം അവർ സമ്മതിച്ചുകഴിഞ്ഞാൽ അതിനുശേഷം മൂല്യനിർണ്ണയ പദ്ധതി എന്തായിരിക്കുമെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കുകയും അവരെ തയ്യാറാക്കുകയും വേണം അവരെ ആശ്ചര്യപ്പെടുത്താൻ കഴിയില്ല

എൻബിഎ നൽകിയ പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കാൻ ഞങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിക്കുക അത് ഞങ്ങളുടെ ആവശ്യകതയാണ് ഇത് ഒരു കടലാസിൽ എഴുതേണ്ട ഒന്നല്ല ഒരു അധ്യാപകനെന്ന നിലയിൽ എൻബിഎ നൽകിയ പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കാൻ അവരെല്ലാവരും വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ അവരുമായി പൂർണമായും യോജിച്ചാലും ഇല്ലെങ്കിലും ആളുകൾ എങ്ങനെ പഠിക്കുന്നു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ പെഡഗോഗി എന്നിവ മനസിലാക്കുന്നതിനും നിങ്ങൾ സ്വയം കുറച്ച് സമയം നീക്കിവയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഈ വിഷയസംബന്ധിയായ സകല രചനകളും ധാരാളം ലഭിക്കും അദ്ധ്യാപനവും പഠനവും നിങ്ങളുടെ തൊഴിലായതിനാൽ നിങ്ങൾക്ക് പുസ്തകങ്ങളിലേക്ക് പ്രവേശനം നേടാം ഒരു വിഷയം എന്ന നിലയിൽ നിങ്ങൾ സ്വയം പഠിക്കുകയും വേണം അനുബന്ധ സാഹിത്യങ്ങൾ വായിക്കുന്ന ശീലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നത് ഇതിനേക്കാൾ നിങ്ങൾക്ക് ജോലി മികച്ചതായി ചെയ്യാൻ കഴിയും നമുക്ക് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുമിച്ച് നോക്കാം ഒരു അദ്ധ്യാപകൻ ആദ്യം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ സ്വയം ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ വിദ്യാർത്ഥികൾ കാരണം നിലനിൽക്കുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ അധ്യാപകർക്ക് ഒരു കാരണവുമില്ല ഞങ്ങളുടെ ജോലികൾ നിലനിൽക്കുന്നത് വിദ്യാർത്ഥികൾ മൂലമാണ് വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികളാകാമെങ്കിലും ഒരർത്ഥത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് വൈജ്ഞാനിക കഴിവുകൾ കുറവാണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല അവരെ വെല്ലുവിളികളായി കണക്കാക്കണം പക്ഷേ അവർക്ക് പഠനത്തിൽ താൽപ്പര്യമില്ലെന്നും ഞങ്ങൾക്ക് അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും പറയാൻ അവർ എതിരാളികളല്ല ഒരു അധ്യാപകന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ അധ്യാപകർ നിലനിൽക്കുന്നത് വിദ്യാർത്ഥികൾ മൂലമാണ് അധ്യാപകർക്ക് അവരുടെ പക്കലുള്ള വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കേണ്ടതുണ്ട് കൂടാതെ അനുയോജ്യമായ വിദ്യാർത്ഥികളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല കാരണം പ്രശ്നം അവരുടെ വിദ്യാർത്ഥികളാണെന്ന് ഞങ്ങൾ പലതവണ അധ്യാപകരിൽ നിന്ന് കേൾക്കുന്നു അവർ മതിയായവരല്ലെന്ന് നിങ്ങൾക്കറിയാം അവർ കഠിനാധ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അത്തരം അഭിപ്രായങ്ങൾ പറയും പക്ഷേ ഞങ്ങൾ നിലനിൽക്കുന്നു കാരണം അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് ഒരു അദ്ധ്യാപകൻ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം അവർ നിങ്ങളുടെ അടുക്കൽ വരുന്ന പ്രായപരിധി ഏകദേശം 17 മുതൽ 21 വരെയാണ് ഇത് വളർന്നുവരുന്ന പ്രായമാണ് കൂടാതെ പാഠ്യപദ്ധതി അനുസരിച്ച് പഠിക്കുന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ ആവശ്യകതകളും ധാരാളം അവർ ലോകത്തെ സ്വന്തം നിലയിലാണ് നോക്കുന്നത് പിന്തുടരാനും പര്യവേക്ഷണം ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് മറ്റ് നിരവധി താൽപ്പര്യങ്ങളുണ്ട് ചിലപ്പോൾ അവർ പരാജയപ്പെടുകയും പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു ചില വിദ്യാർത്ഥികൾ തങ്ങൾ തെറ്റായ തൊഴിലിലാണെന്ന് കരുതുന്നു അത് മാതാപിതാക്കൾ സമ്മതിച്ചേക്കില്ല ആ പ്രായത്തിലുള്ള എല്ലാത്തരം പ്രശ്നങ്ങളോടും ഒരു അധ്യാപകനോട് സംവേദനക്ഷമത പുലർത്തേണ്ടതുമാണ് ഇതിന് സാർവത്രിക പരിഹാരങ്ങളൊന്നുമില്ല അധ്യാപകർക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ടിപ്പുകൾ നൽകുന്നു സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യുകയും നിങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ സന്ദർഭവും അവലോകനവും എഴുതുക അത് ഡോക്യുമെന്റ് ചെയ്യണോ ADDIE യുടെ വിശകലന ഘട്ടത്തിൽ ഞങ്ങൾ ഇതിനകം പറഞ്ഞതുപോലെ കോഴ്സിന്റെ സന്ദർഭവും അവലോകനവും എന്താണ് ആവശ്യമെങ്കിൽ തിരുത്തിയെഴുതുക കാരണം കോഴ്സ് ഫലങ്ങളിൽ ഭൂരിഭാഗവും ശരിയായ ഫോർമാറ്റിൽ എഴുതുകയോ എഴുതാത്തതോ ആയ ചില കോഴ്സ് ഫലങ്ങൾ എഴുതുന്നു നിങ്ങൾക്ക് മാറ്റാൻ അവകാശമില്ലാത്ത സിലബസ് മാറ്റാതെ അത് വീണ്ടും ചെയ്യുക ഒരു കോഴ്സിന്റെ അതേ സിലബസിനായിനിങ്ങൾക്ക് കോഴ്സ് ADDIE യുടെ വിശകലന ഘട്ടത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ച ഒരു ഘടനയിൽ ഫലങ്ങൾ മാറ്റിയെഴുതാം അവ ശരിയായി ടാഗുചെയ്യാം പക്ഷേ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി സഹകരിച്ച് ഒരു പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യുന്നത് അഭിസംബോധന ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മനസിലാക്കുക ADDIE ന്റെ ചട്ടക്കൂടിൽ നിങ്ങളുടെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത് ഡോക്യുമെൻറ് ചെയ്യുക യഥാർത്ഥത്തിൽ സ്വയം രേഖപ്പെടുത്തുന്ന പഠന പ്രക്രിയയാണ് അതിനെ ഒരു ഭാരമായി കാണരുത് ഡോക്യുമെന്റിംഗ് പഠന പ്രക്രിയകളിലൊന്നായി കാണണം ഏറ്റവും പ്രധാനമായി ഇൻറർനെറ്റിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ശരിയായ ടാഗിംഗ് ഉപയോഗിച്ച് നല്ല ഇനം ശേഖരം രൂപകൽപ്പന ചെയ്യുക നിങ്ങൾ ഈ ഔട്ട്പുട്ട് ഡിപ്പാർട്ട്മെന്റുമായി പങ്കിടണം കാരണം ഒരു ഫാക്കൽറ്റി അംഗം മാറുമ്പോഴെല്ലാം വകുപ്പിന് ഈ ഉറവിടം നഷ്ടപ്പെടരുത് ചതുര പൂജ്യത്തിൽ ആരംഭിക്കാൻ കഴിയില്ല വൺ വേ ആശയവിനിമയമായ പ്രഭാഷണത്തിലേക്ക് സ്വയം പരിമിതപ്പെടുത്തരുത് ഞങ്ങൾ സംസാരിച്ച ചില സംയോജിത ഘടകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില നിർദ്ദേശപരമായ സമീപനം ഉപയോഗിച്ച് ക്ലാസിലെ വൺവേ ആശയവിനിമയത്തിലേക്ക് തിരിയുന്നതിനുപകരം നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ മുൻഗണനയുടെ ഒരു പ്രബോധന സമീപനം തിരഞ്ഞെടുക്കുക അതിനൽ ഓരോ CO ക്കും അല്ലെങ്കിൽ യോഗ്യതയ്ക്കും TALE ൽ അവതരിപ്പിച്ച സമീപനങ്ങളിൽ നിന്നോ നിങ്ങൾ പര്യവേക്ഷണം ചെയ്ത മറ്റുള്ളവരിൽ നിന്നോ എല്ലാവരും ഒരേ നിർദേശപരമായ സമീപനം പിന്തുടരേണ്ടതില്ല നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന് കാരണങ്ങൾ നൽകുക പങ്കിടാൻ കഴിയുന്ന ഒരു രൂപത്തിൽ നിർദ്ദേശ മെറ്റീരിയൽ സൃഷ്ടിക്കുക സാധ്യമെങ്കിൽ നിരവധി വർക്ക്ഷോപ്പുകളിലൂടെ ഞങ്ങൾ ഇത് ചെയ്തു പക്ഷേ ഇത് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമായി ചെയ്യണം കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ അറിവും നൈപുണ്യവും ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ഇടപഴകിക്കുന്നതിനുള്ള ശ്രമം നടത്തുക പുതിയ അറിവുമായി വിദ്യാർത്ഥികളെ എങ്ങനെ ഇടപഴകും ചില പ്രവർത്തനങ്ങൾ ചെയ്യുക കുറച്ച് ചർച്ച ചെയ്യുക 2 മിനിറ്റ് പേപ്പർ എഴുതുക അല്ലെങ്കിൽ ഒരു ഡയഗ്രം വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അനുകരിക്കുക എന്നിവ ഇടപഴകലിൽ ഉൾപ്പെടുന്നു വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുക്കുകയും അറിവുമായി ഇടപഴകുകയും അറിവിലേക്ക് മുഴുകുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ശ്രദ്ധയും പങ്കാളിത്തവും പൂർണ്ണമായും ലഭിക്കും അവർ പങ്കുചേർന്നു കഴിഞ്ഞാൽ അവർ കോഴ്സും ആസ്വദിക്കും ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ വിദ്യാർത്ഥിയെ പുതിയ അറിവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം പ്രബോധന സാഹചര്യത്തിന്റെ എല്ലാ പരിമിതികൾക്കിടയിലും അധ്യാപകർക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങളാണിത് നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ നേരിട്ട് പ്രതിഫലിക്കും കാരണം അവ ഞങ്ങളുടെ ലക്ഷ്യമാണ് അവ ഞങ്ങളുടെ കടമയാണ് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനം സുഗമമാക്കുന്നതിന് ഒരു പരിശീലനമെന്ന നിലയിൽ നിങ്ങളുടെ പ്രബോധന സാഹചര്യത്തിന്റെ എല്ലാ പരിമിതികൾക്കിടയിലും നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ പട്ടികപ്പെടുത്തുക മികച്ച പഠനത്തിലേക്ക് നയിച്ചതായി നിങ്ങൾ കരുതുന്ന ഏത് പ്രവർത്തനങ്ങളും പരമാവധി 500 വാക്കുകളിൽ ഞങ്ങളുമായി പങ്കിടുക ഈ വിലാസത്തിൽ ഞങ്ങൾക്ക് അയയ്ക്കുക ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് അവസാനത്തെ യൂണിറ്റാണ് കൂടാതെ TALE മൊഡ്യൂൾ 2 ഉം 3 ഉം നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ വ്യക്തതകൾ എന്നിവ ചോദിച്ച് മെയിൽ അയയ്ക്കാൻ നിങ്ങൾക്ക് സ്വാഗതം